വാക്വം അളക്കൽ അതിനാൽ ഇതുവരെ നമ്മൾ അന്തരീക്ഷ മർദ്ദം മൊത്തം മർദ്ദം എന്നിവ കണ്ടു ഇപ്പോൾ നമ്മൾ വാക്വം അളക്കുന്നതിലേക്ക് പോയി അതിനാൽ വാക്വം അളക്കുമ്പോൾ അന്തരീക്ഷത്തിന് താഴെയുള്ള മർദ്ദത്തെ അന്തരീക്ഷത്തിന് താഴെയുള്ള താഴ്ന്ന മർദ്ദം അല്ലെങ്കിൽ വാക്വം മർദ്ദം എന്ന് വിളിക്കുന്നു വാക്വം എന്ന പദം പരാമർശിക്കുമ്പോൾ ഇതിനർത്ഥം ഗേജ് മർദ്ദം നെഗറ്റീവ് ആണെന്നാണ് ഇത് വളരെ പ്രധാനമാണ് അതിനാൽ ഗേജ് മർദ്ദം നെഗറ്റീവ് ആകുമ്പോൾ അതിനെ വാക്വം എന്ന് വിളിക്കുന്നു എന്നിരുന്നാലും അന്തരീക്ഷമർദ്ദം ഒരു റഫറൻസായി വർത്തിക്കുമ്പോൾ കേവല മർദ്ദം പോസിറ്റീവ് ആണ് ഇടത്തരം മർദ്ദത്തേക്കാൾ താഴ്ന്ന മർദ്ദം അളക്കാൻ പ്രയാസമാണ് അതിനാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു സമ്മർദ്ദം കൂടുതലുള്ള എന്തും എളുപ്പമാണ് നിങ്ങൾക്ക് പോകണമെങ്കിൽ ഇത് അന്തരീക്ഷമർദ്ദമാണ് അതിനേക്കാൾ കുറവുള്ളത് എല്ലായ്പ്പോഴും ബുദ്ധിമുട്ടാണ് മർദ്ദം അളക്കേണ്ട താഴ്ന്ന മർദ്ദ വാതകം കംപ്രസ്സു ചെയ്യുന്നതിലൂടെ വാക്വം അളക്കാൻ കംപ്രഷൻ ഗേജ് എന്നും അറിയപ്പെടുന്ന മക്ലിയോഡ് ഗേജ് ഉപയോഗിക്കുന്നു ഒരു കാപ്പിലറി ട്യൂബിൽ കുടുങ്ങിയ വാതകം ചുരുങ്ങുന്നു വാക്വം അളക്കുന്നത് മെർക്കുറിയുടെ നിരയുടെ ഉയരം അളക്കുന്നതിലൂടെയാണ് വാക്വം അളക്കുന്നത് അതിനാൽ സജ്ജീകരണം ഇങ്ങനെയാണ് അതിനാൽ നിങ്ങൾക്ക് ഒരു ബൾബ് ഉണ്ട് നിങ്ങൾക്ക് ഒരു കാപ്പിലറി ഘടിപ്പിച്ചിരിക്കുന്നു അതിനുശേഷം നിങ്ങൾക്ക് ഒരു വാക്വം സ്രോതസ്സ് ഉണ്ട് അത് ഇവിടെ അറ്റാച്ചുചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് ഗ്രേജ്യുവേഷൻ ഉണ്ട് ഇത് ക്യാപില്ലറി A പിന്നെ നിങ്ങൾക്ക് B ഉണ്ട് പിന്നെ നിങ്ങൾക്ക് C ഉണ്ട് C ചലിക്കുന്ന റിസോഴ്സാണ് ഇവിടെ നിങ്ങൾക്ക് ഓപ്പണിംഗ് O ഉണ്ട് ഇവിടെ നിങ്ങൾ വാക്വം പ്രയോഗിച്ചു നിങ്ങൾ അളക്കാൻ ശ്രമിക്കുക അതിനാൽ അറിയപ്പെടുന്ന കുറഞ്ഞ മർദ്ദം വാതകത്തെ ഉയർന്ന മർദ്ദത്തിലേക്ക് കംപ്രസ്സുചെയ്യുന്നതിലൂടെ ബോയ്ലിന്റെ നിയമത്തിൽ മക്ലിയോഡ് ഗേജ് പ്രവർത്തിക്കുന്നു പ്രാരംഭ പ്രക്രിയ ബോയിലിന്റെ നിയമമായ Boyles law ഫലമായുണ്ടാകുന്ന അളവും സമ്മർദ്ദവും അളക്കുന്നതിലൂടെ കണക്കാക്കാം അതിനാൽ V1 എന്നത് O ലെവലിനു മുകളിലുള്ള ക്യാപില്ലറി A യിലെ ബൾബിന്റെ വോളിയമാണെങ്കിൽ P1 എന്നത് BC എന്നിവയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന സിസ്റ്റത്തിലെ വാതകത്തിന്റെ അജ്ഞാത സമ്മർദ്ദമാണ് തിരികെ പോയി കാണുക D മർദ്ദം B C എന്നിവയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു P2 കംപ്രഷനുശേഷം ഉള്ള ലിംമ്പിലെ വാതകത്തിന്റെ മർദ്ദവും V2 കംപ്രഷനുശേഷം ഉള്ള അടച്ച ലിംമ്പിലെ വാതകത്തിന്റെ അളവുമാണ് പിന്നെ P1V1P2V2 കാപ്പിലറി ട്യൂബിന്റെ ക്രോസ് സെക്ഷൻ വിസ്തീർണ്ണം a ആണെങ്കിൽ ലിംമ്പ് B A B എന്നിവയിലെ 2 നിരകളുടെ ലെവലിലെ വ്യത്യാസം h ആണ് തുടർന്ന്V2 ah ഇവിടെ h എന്നത് P1 P2 എന്നിവയുടെ വ്യത്യാസമാണ് അതായത് h P2 P1 അതിനാൽ നമുക്ക് ഇത് വീണ്ടും സമവാക്യങ്ങളിലേക്ക് ചേർക്കാം V1 മുതൽ a വരെയുള്ള അനുപാതത്തെ കംപ്രഷൻ അനുപാതം എന്ന് വിളിക്കുന്നു a വളരെ ചെറുതാക്കിയാൽ മെർക്കുറി കാപ്പിലറി ട്യൂബിനുള്ളിൽ പറ്റിനിൽക്കുന്നു ഇത് കംപ്രഷൻ അനുപാതത്തിന്റെ ഉയർന്ന പരിധിയിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നു അതിനാൽ a വളരെ ചെറുതായിരിക്കരുത് ഇത് വളരെ ചെറുതാണെങ്കിൽ സിസ്റ്റം പരാജയപ്പെടുന്നു അതിനാൽ ഇതുപയോഗിച്ച് നമുക്ക് വാക്വം മർദ്ദം അളക്കാൻ ശ്രമിക്കാം മറ്റൊന്നിനെ പിരാനി ഗേജ് എന്ന് വിളിക്കുന്നു പിരാനി ഗേജ് പ്രവർത്തിക്കുന്ന തത്വം ഇങ്ങനെയാണ് ഗ്യാസ് ചേമ്പറിൽ ചൂടായ വയർ സ്ഥാപിക്കുമ്പോൾ വാതകത്തിന്റെ താപ ചാലകത അതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത് പിരാനി ഗേജ് വളരെ കുറഞ്ഞ വാക്വം ഉപയോഗിക്കുന്നു അതും അത്യാധുനിക ഉപകരണങ്ങളിൽ നമ്മൾ എല്ലായ്പ്പോഴും പിരാനി ഗേജ് ഉപയോഗിക്കുന്നു പിരാനി ഗേജ് ഗ്യാസ് ചേമ്പറിൽ ഒരു ചൂടായ വയർ സ്ഥാപിക്കുമ്പോൾ വാതകത്തിന്റെ താപചാലകത അതിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ വയർ മുതൽ വാതകം വരെയുള്ള ഊർജ്ജ കൈമാറ്റം വാതക സമ്മർദ്ദത്തിന് ആനുപാതികമാണ് ഇന്നും ഇത് വളരെ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നു വയർ വിതരണം ചെയ്യുന്ന ചൂടാക്കൽ ഊർജ്ജം സ്ഥിരമായി നിലനിർത്തുന്നതിലൂടെയും വാതകത്തിന്റെ മർദ്ദം വ്യത്യാസപ്പെടുത്തിയും വയർ താപനിലയിൽ മാറ്റം വരുത്താം അങ്ങനെ മർദ്ദം അളക്കുന്നതിനുള്ള രീതി നൽകുന്നു ഞാൻ ആവർത്തിക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗേജാണെന്ന് അത് ഇപ്പോൾ പോലും ആപ്ലിക്കേഷൻ കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെയാണ് പ്രവർത്തന തത്വം ചേമ്പറിൽ ഒരു ചൂടായ വയർ സ്ഥാപിക്കുമ്പോൾ ഒരു അറയിൽ ചൂടാക്കിയ വയർ വാതകത്തിന്റെ താപ ചാലകത സമ്മർദ്ദത്തെ ആശ്രയിച്ചിരിക്കുന്നു മൂന്ന് ആട്രിബ്യൂട്ടുകൾ അതായത് വൈദ്യുതധാരയുടെ നിലവിലെ പ്രതിരോധത്തിന്റെ വ്യാപ്തി ചൂട് ചിതറിപ്പോകുന്ന നിരക്ക് എന്നിവ വൈദ്യുത പ്രവഹിക്കുന്ന ഒരു നിശ്ചിത വയറിന്റെ താപനിലയെ നിയന്ത്രിക്കുന്നു 2 ഫിലമെന്റിന്റെ പ്രതിരോധം അളക്കുമ്പോൾ ഒരു റെസിസ്റ്റൻസ് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നു ബ്രിഡ്ജ് ചില റഫറൻസ് മർദ്ദത്തിൽ സന്തുലിതമാണ് കൂടാതെ ആപേക്ഷിക സമ്മർദ്ദങ്ങളുടെ അളവുകോലായി ഔട്ട് ഓഫ് ബാലൻസ് കറന്റിലെ മറ്റെല്ലാ പൊസിഷനുകളിലും ഉപയോഗിക്കുന്നു ഇതും വളരെ പ്രധാനമാണ് അതിനാൽ പിരാനി ഗേജ് വാക്വം ഉറവിടം ഇങ്ങനെയാണ് ഒരു ബ്രിഡ്ജ് സർക്യൂട്ട് ഉണ്ട് ഇത് ചൂടാക്കിയ ഒരു ഫിലമെന്റ് ആണ് അതിനാൽ നിങ്ങൾ ഒരു സ്ഥിരമായ ചൂട് അളക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ചൂട് മാറ്റാനോ വോൾട്ടേജ് അളക്കാനോ ശ്രമിക്കുക അതിനാൽ പിരാനി ഗേജ് അന്തരീക്ഷ താപനിലയ്ക്ക് നഷ്ടപരിഹാരം നൽകുന്നു ഇവിടെ ഒരു വാക്വം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഇവിടെ ചൂടാക്കിയ ഒന്ന് ചൂടാക്കിയതിന്റെ ഔട്ട്പുട്ട് ഒരു വോൾട്ട്മീറ്ററിൽ ഘടിപ്പിച്ചിരിക്കുന്നു തുടർന്ന് അത് മറ്റൊരു ചൂടായ മൂലകവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഈ ഗേജ് ഇതാണ് സീൽഡ് ഇവാക്വറ്റഡ് ഗേജ് അതിനാൽ നിങ്ങൾക്ക് റെസിസ്റ്റൻസ് ബിൽഡ് ഉണ്ട് ഇത് പ്രയോഗിച്ച വോൾട്ടേജ് അതിനാൽ നിങ്ങൾ അന്തരീക്ഷ വ്യതിയാനത്തിനായുള്ള നഷ്ടപരിഹാരത്തോടുകൂടിയ പിരാനി ഗേജ് കാണുന്നു അടുത്തത് അയോണൈസേഷൻ ഗേജ് ഇടത്തരം ഉയർന്ന വാക്വം അളക്കലിനായി അയോണൈസേഷൻ ഗേജ് ഉപയോഗിക്കുന്നു ഈ ഗേജുകൾ ന്യൂട്രൽ ഗ്യാസ് തന്മാത്രകളെ പോസിറ്റീവ് ചാർജ്ജ് അല്ലെങ്കിൽ അയോണൈസ്ഡ് ഗ്യാസ് തന്മാത്രകളാക്കി മാറ്റുന്നു എന്താണ് അയോണൈസേഷൻ ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് എന്ന 2 സാധ്യതകൾ എടുക്കുന്നു ഒരു കണ്ടെയ്നറിനുള്ളിൽ വച്ച് വൈദ്യുതി പ്രയോഗിക്കുന്നത് തുടരുന്നു അതിനാൽ ഇവിടെ അയോണൈസേഷൻ നടന്നപ്പോൾ എന്താണ് സംഭവിച്ചത് ശരി അതിനാൽ വാതകം ന്യൂട്രൽ ഗ്യാസ് തന്മാത്രയെ പോസിറ്റീവ് ചാർജ്ജ് ആയ അയോണൈസ്ഡ് വാതക തന്മാത്രയായി പരിവർത്തനം ചെയ്യുന്നു ചൂടായ ഫിലമെന്റ് അല്ലെങ്കിൽ പദാർത്ഥത്തിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറപ്പെടുവിക്കുന്നതിനാൽ ഗേജിനെ തെർമോണിക് ഗേജ് എന്നും അറിയപ്പെടുന്നു പുറത്തുവിടുന്ന ഇലക്ട്രോണുകളെ തെർമിയോൺസ് അല്ലെങ്കിൽ തെർമേലി എമിറ്റഡ് അയോൺ എന്ന് വിളിക്കുന്നു ഇലക്ട്രോണിക് വാക്വം ട്യൂബുകളിൽ തെർമിയോണിക് എമിഷന്റെ തത്വം ഉപയോഗിക്കുന്നു ടങ്സ്റ്റൺ ഫിലമെന്റ് വളരെ ഉയർന്ന താപനിലയിൽ ചൂടാകുമ്പോൾ വളരെ ഉയർന്ന വൈദ്യുതധാര ഇലക്ട്രോണുകൾ ആവശ്യത്തിന് ഊർജ്ജം നേടുകയും പുറത്തേക്ക് നീങ്ങുകയും ചെയ്യുന്നു ചൂടുള്ള കാഥോഡ് അയോണൈസേഷൻ ഗേജ് തെർമോണിക് കാഥോഡിൽ നിന്ന് ഇലക്ട്രോണുകളെ പുറപ്പെടുവിക്കുന്നത് ഒരു വൈദ്യുത മണ്ഡലത്തിൽ ത്വരിതപ്പെടുത്തും അതിനാൽ അവർ ഇത് പറയാൻ ശ്രമിക്കുകയാണ് ഇത് നെഗറ്റീവ് ആണ് ഇത് പോസിറ്റീവ് ആണ് അതിനാൽ ഇത് ഒരു വാക്വത്തിന് ഉള്ളിലാണ് നിങ്ങൾ ധാരാളം വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ് പ്രയോഗിക്കുന്നു അതിനാൽ അയോണൈസേഷൻ നടക്കുന്നു ഈ അയോണൈസേഷൻ എല്ലായിടത്തും വ്യാപിക്കും അതിനാൽ ഞാൻ ചെയ്യുന്നത് അതിനു ചുറ്റും ഒരു കാന്തിക കോയിൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇടാൻ ശ്രമിച്ചു അവ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക ഈ ഇലക്ട്രോണുകൾ വാതക തന്മാത്രകളുമായി കൂട്ടിയിടിക്കുകയും അയോണീകരിക്കുകയും ചെയ്യുന്നു ഫിലമെന്റിനെ പരാമർശിച്ച് ആനോഡും ഗ്രിഡും യഥാക്രമം നെഗറ്റീവ് പോസിറ്റീവ് പൊട്ടൻഷ്യലുകളിൽ ആണ് വാതക തന്മാത്രകൾ ചൂടായ ഫിലമെന്റിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഇലക്ട്രോണുകളുമായി കൂട്ടിയിടിച്ച് അയോണീകരിക്കപ്പെടുന്നു പോസിറ്റീവ് അയോണുകൾ നെഗറ്റീവ് ചാർജ്ജ് ഉള്ള ആനോഡിലേക്ക് നീങ്ങുന്നു അങ്ങനെ അയോണൈസ്ഡ് കറന്റ് സർക്യൂട്ടിലൂടെ ഒഴുകുന്നു ഇത് ഗേജിലെ കേവല വാതക സമ്മർദ്ദത്തിന്റെ അളവാണ് പൊട്ടൻഷ്യലും ഗ്രിഡ് സർക്യൂട്ട് കറന്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കറന്റും മാറ്റമില്ലാതെ നിലനിൽക്കുന്നിടത്തോളം കേവല വാതക പ്രക്രിയ അയോണൈസേഷൻ കറന്റിന് ആനുപാതികമായിരിക്കും ട്രയോഡ് അസംബ്ലിയിൽ ഉപയോഗിക്കുന്ന ഫിലമെന്റ് ശുദ്ധമായ അല്ലെങ്കിൽ തോറിയേറ്റഡ് ടങ്ങ്സ്റ്റൺ അല്ലെങ്കിൽ ബേരിയത്തിന്റെ പ്ലാറ്റിനം അലോയ് കോട്ടിംഗ് സ്ട്രോൺഷ്യം ഓക്സൈഡ് എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ ഇവ വാക്വം അളക്കുന്ന ഗേജിനായി ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളാണ് മറ്റൊരു ഗേജിനെ ക്നുഡ്സെൻ ഗേജ് എന്ന് വിളിക്കുന്നു ഇത് വളരെ കുറഞ്ഞ സമ്മർദ്ദങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വ്യത്യസ്ത താപനിലയിൽ ഉള്ള വെയിനുകളും ഹോട്ട് പ്ലേറ്റുകളും തമ്മിലുള്ള തന്മാത്രാ സാന്ദ്രതയുടെ ആക്കം മാറ്റുന്നതിന്റെ നെറ്റ് റേറ്റ് പ്രവർത്തനമായിട്ടാണ് മർദ്ദം കണക്കാക്കുന്നത് അതിനാൽ ക്നുഡ്സെൻ ഗേജ് പ്രവർത്തിക്കുന്ന തത്വമാണിത് ഒരു പമ്പിലെ വാനുകളും വ്യത്യസ്ത താപനിലയിൽ സൂക്ഷിക്കുന്ന ഹോട്ട് പ്ലേറ്റും തമ്മിലുള്ള തന്മാത്രാ സാന്ദ്രതയുടെ ആക്കം മാറ്റുന്നതിന്റെ നെറ്റ് റേറ്റ് പ്രവർത്തനമായിട്ടാണ് മർദ്ദം കണക്കാക്കുന്നത് ഇത് വാതകത്തിന്റെ മർദ്ദവും താപനിലയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയും ശരി അതിനാൽ നിങ്ങൾക്ക് ഒരു മികച്ച ഗ്രാഹ്യം ലഭിക്കുന്നതിന് ഞാൻ ചിത്രം വരയ്ക്കട്ടെ ഇത് ഫിലമെന്റിന്റെ സസ്പെൻഷനായിരിക്കും ശരി അതിനാൽ ഇതാ ഇത് പ്ലേറ്റ് 1 ഇത് വെയ്ൻ 1 ഇത് വെയ്ൻ 2 പ്ലേറ്റ് 2 വെയ്ൻ 2 മുകളിൽ ഉള്ളത് ഇവിടെ ഞാൻ ഇവിടെ പ്ലേറ്റ് അറ്റാച്ചു ചെയ്തു ശരി അതിനാൽ പ്ലേറ്റ് 1 പിന്നിലുണ്ട് ഇവിടെ പ്ലേറ്റ് 2 മുന്നിൽ വെയ്ൻ പിന്നിലാണ് ശരി അതിനാൽ ഇവിടെ കണ്ണാടിയുണ്ട് ഇതിന് ഒരു ഗ്രേജ്യുവെഷൻ സ്കെയിലുണ്ട് ഇതൊരു സ്കെയിലാണ് അപ്പോൾ ക്നുഡ്സെൻ ഗേജ് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ ക്നുഡ്സെൻ ഗേജിന്റെ പ്രധാന ഗുണങ്ങൾ എന്തെന്നാൽ അത് കേവല സമ്മർദ്ദം നൽകുന്നു കൂടാതെ കാലിബ്രേറ്റ് ചെയ്യേണ്ടതില്ല എന്നതാണ് അവ ഉയർന്ന സമ്മർദ്ദ അന്തരീക്ഷത്തിൽ വളരെ ഉപയോഗപ്രദമാണ് ഉയർന്ന സമ്മർദ്ദ അളവുകൾക്ക് നിർദ്ദിഷ്ട ഉപകരണങ്ങളുടെ ഉപയോഗം ആവശ്യമാണ് 1 ലക്ഷം അന്തരീക്ഷം വരെ ഉയർന്ന മർദ്ദം അളക്കാൻ കഴിയുന്ന ബ്രിഡ്ജ്മാൻ ഗേജ് Bridgemans gauge ആണ് ഏറ്റവും പ്രചാരമുള്ള ഉപകരണം പരമ്പരാഗത ബ്രിഡ്ജ് സർക്യൂട്ടുകൾ പ്രതിരോധത്തിലെ മാറ്റം കണക്കാക്കുന്നതിനായി ഉപയോഗിക്കുന്നു ഇത് പ്രായോഗിക സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ കാലിബ്രേറ്റ് ചെയ്യുകയും സമവാക്യം നൽകുകയും ചെയ്യുന്നു ബ്രിഡ്ജ്മാൻ പതിവായി കാലിബ്രേഷൻ ആവശ്യമാണ് കാരണം പഴക്കം ഒരു പ്രശ്നമാണ് ശരി മുമ്പത്തേതിൽ ക്നുഡ്സെൻ ഗേജിൽ കാലിബ്രേഷൻ ആവശ്യമില്ല ഒരു ദ്രാവക പ്രവാഹം അളക്കുന്നത് ഒരു മാധ്യമമെന്ന നിലയിൽ വായു മാത്രമാണ് ഇപ്പോൾ നമ്മൾ ദ്രാവകം കാണാൻ ശ്രമിക്കും ഒരു ഫ്ലോയുടെ വേഗത അളക്കാൻ ദ്രാവക ഫ്ലോ അളക്കൽ ഉപയോഗിച്ച് കഴിയും അത് ഒരു ഉപരിതല ഫ്ലോട്ടുകളുടെ സമയബന്ധിതമായ പുരോഗതി വഴി ചെയ്യുന്നു ഒഴുക്കിന്റെ ശരാശരി വേഗത ഉപരിതല വേഗതയിൽ നിന്ന് ഏകദേശം കണക്കാക്കാം ഉദാഹരണത്തിന് അതിന് മുകളിൽ വെള്ളം ഒഴുകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ പേപ്പർ ഇടുകയും നിങ്ങൾ സമയം കണ്ടെത്തുകയും ചെയ്യുന്നു ശരി ഇപ്പോൾ അത് ആരംഭിക്കുന്നു തുടർന്ന് നിങ്ങൾ 100 മീറ്ററിന് ശേഷം ജലത്തിന്റെ വേഗത എടുക്കുന്നു അതിനാൽ അതാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് പ്രവാഹത്തിന്റെ വേഗത ഉപരിതല പ്ലോട്ടിന്റെ സമയബന്ധിതമായ പുരോഗതി ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയും ഒഴുക്കിന്റെ ശരാശരി വേഗത ഉപരിതല വേഗതയിൽ നിന്ന് ഏകദേശം കണക്കാക്കാം സോൾട്ട് ഗൾഫ് ഇഞ്ചക്ഷൻ രീതിക്ക് ചെറിയ അളവിൽ ഉപ്പ് ലായനി മാത്രമേ ആവശ്യമുള്ളൂ കൈകൊണ്ട് നടത്തുന്ന മീറ്ററും സ്റ്റോപ്പ് വാച്ചും നമുക്ക് ചെയ്യാൻ കഴിയും അതിനാൽ അളന്ന അളവ് ഉപ്പ് ലായനിയിലെ Vu ആണ് സാധാരണയായി ഒരു ചെറിയ നദിയിൽ നിന്നുള്ള കുറച്ച് അക്ഷരങ്ങൾ ഒരുപക്ഷേ 1 ലിറ്ററോ അതിൽ കുറവോ സ്ട്രീം ആയതിനാൽ ഇതാണ് ചാലകത അതിനാൽ സമയ ഇടവേള T യിൽ ചാലകത എടുക്കുന്നു നമ്മൾ 5 സെക്കൻഡും 10 സെക്കൻഡും ഒരു പ്രവാഹം കണക്കാക്കാൻ പറയുന്നു അതിനാൽ ഫ്ലോ ഈ സമവാക്യത്തിലൂടെ നൽകാം Flow rate Q Vu×Cu T ×∑Ci−Co ഫ്ലോ മോണിറ്ററിംഗിനായുള്ള അൾട്രാസോണിക് രീതിയുടെ ഉപയോഗം ഇതിൽ നദിയുടെ ഒരു വശത്ത് ഉപകരണങ്ങൾ മറുവശത്തേക്കാൾ താഴെയായി ഒരു അൾട്രാസോണിക് ട്രാൻസ്ഡ്യൂസറും ഒരു റിസീവറും ഒഴുക്കിനു കുറുകെ സജ്ജീകരിക്കുന്നതാണ് അതിനാൽ ശബ്ദം സഞ്ചരിച്ച് തിരിച്ചു വരുന്ന വേഗതയിൽ ആംപ്ലിറ്റ്യൂഡ് സഞ്ചരിക്കുന്ന വേഗത നമ്മൾ കാണുന്നു അതിനാൽ പിച്ച് ക്യാച്ച് എന്നിവ ഉപയോഗിച്ച് വേഗത എന്താണെന്ന് മനസിലാക്കാൻ നമുക്ക് ശ്രമിക്കാം ശരി ശബ്ദതരംഗം അപ്സ്ട്രീമിൽ നിന്ന് ഡൌൺസ്ട്രീം സ്റ്റേഷനിലേക്ക് കൈമാറുമ്പോൾ ശബ്ദതരംഗം ഡൌൺസ്ട്രീമിൽ നിന്ന് അപ്സ്ട്രീമിലേക്ക് പോകുന്നതിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു ഈ സമയ വ്യത്യാസം ജലത്തിന്റെ വേഗത കണക്കാക്കാൻ ഉപയോഗിക്കുന്നു ഇതിൽ സംഭവിക്കാനിടയുള്ള നിരവധി പിശകുകൾ ഉണ്ട് പക്ഷേ ഇപ്പോഴും ആളുകൾ ഇത് ഒരു ബോൾപാർക്ക് കണക്കിനായി ചെയ്യുന്നു ദ്രാവക മെക്കാനിക്സ് ആളുകൾ ചെയ്യുന്ന വളരെ സാധാരണ പരീക്ഷണമാണ് ഒരു പൈപ്പിലെ സ്ഥിരമായ ഒഴുക്ക് എന്നത് മർദ്ദം കുറയുന്നത് സ്പീഡ് സ്ക്വയറിന്റെ പ്രവർത്തനമാണ് അതിനാൽ ശരാശരി സ്ഥിരതയുള്ള റീഡിങ് സ്ക്വയറിന്റെ വേഗതയുടെ ശരാശരി മൂല്യത്തെ പ്രതിനിധീകരിക്കുന്നു അതേസമയം ശരാശരി ഒഴുക്ക് സ്ക്വയറല്ലാത്ത ശരാശരി വേഗതയെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഈ പ്രത്യേക പ്രഭാഷണത്തിൽ നാം കണ്ടത് മർദ്ദം അളക്കൽ മാനോമീറ്ററുകളുടെ തരം ട്രാൻസ്ഡ്യൂസറുകളുടെ തരം ഗേജുകളുടെ തരം വാക്വം അളക്കൽ എന്നിവയാണ് ഒരു ഫ്ലോ അളക്കലും അവിടെയുണ്ട് പക്ഷേ നമ്മൾ സ്വയം ശൂന്യതയിലേക്ക് പരിമിതപ്പെടുത്തുന്നു ഈ ചിത്രത്തിന്റെ ഉള്ളടക്കം മർദ്ദം അളക്കൽ മാനോമീറ്ററുകളുടെ തരം വ്യത്യസ്ത തരം ട്രാൻസ്ഡ്യൂസറുകൾ ഗേജുകളുടെ തരം വാക്വം അളക്കൽ എന്നിവ ആയിരിക്കും